നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സീരീസ് പാസ് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അവയെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനാൽ NMOSസിനെ ഒരു സീരീസ് പാസ് ഘടകമായി ഉപയോഗിക്കാൻ കഴിയുമെന്നു ഞങ്ങൾ പറഞ്ഞിരുന്നു കാരണം ഇതിന് ധാരാളം ആകർഷണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു PMOSനെ അപേക്ഷിച്ച് NMOS ട്രാൻസിസ്റ്ററിന്റെ എണ്ണം കുറച്ചു മതി അതിനാൽ ഒരു PMOS സീരീസ് പാസ് ഘടകത്തിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതിനാൽ രണ്ട് സർക്യൂട്ടുകളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കൃത്യമായി മനസിലാക്കാൻ കഴിയും കാരണം NMOSസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചാർജ് പമ്പ് ആവശ്യമാണ് ഗേറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കേണ്ടതിനാൽ ഗേറ്റ് കൺട്രോൾ ഉണ്ടെന്ന് ഉറപ്പാക്കാനാണിത് അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം ചാർജ് പമ്പ് സർക്യൂട്ട് ഉപയോഗിക്കുക എന്നതാണ് അതിന്റെ പ്രവർത്തനം എങ്ങനെ ആണെന്ന് പിന്നീട് കാണാം NMOS കേസിൽ ഞങ്ങൾക്ക് വേണ്ടത് ഇതാണ് പക്ഷേ PMOS കേസിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഗേറ്റ് വോൾട്ടേജിൽ നിന്ന് കുറയുകയോ ഗേറ്റ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയോ ചെയ്യുമ്പോൾ സീരീസ് പാസ് ഘടകത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കണം അതിനാൽ നമുക്ക് സർക്യൂട്ട് വേഗത്തിൽ നോക്കാം കൂടാതെ LDO യെ കുറിച്ച് പരിശോധിക്കാം ഞാൻ ഒരു പുതിയ പേജ് എടുത്ത് PMOS ഘടകത്തെക്കുറിച്ച് പറയുന്ന ഞങ്ങളുടെ പ്രശസ്ത സർക്യൂട്ട് നോക്കാം അതിനാൽ ഒരു P MOSFET എടുക്കാം ഡ്രെയിനാണ് ഔട്ട്പുട്ട് സോഴ്സ് ഇൻപുട്ടും ഗേറ്റ് കൺട്രോൾ പോയിന്റുമാണ് ഫീഡ്ബാക്ക് മധ്യ പോയിന്റിൽ നിന്നും വരുന്നു ഇത് R1 ഇതാണ് R2 ഇതാണ് Vref നിങ്ങൾക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്റർ Cout ഇൻപുട്ട് കപ്പാസിറ്റർ Cin എന്നിവ ഇല്ലെങ്കിൽ ഇത് അപൂർണ്ണമായിരിക്കും ഒരു മോസ്ഫെറ്റിൽ ഇവ വളരെ പ്രധാനമാണ് എനിക്ക് ഒരു LDO ആവശ്യമാണ് കാരണം ഇവയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൺട്രോളറിന്റെ സ്റ്റബിലിറ്റി നൽകുന്നത് ഇത് വളരെ ലളിതമാണ് ചില കാരണങ്ങളാൽ ഔട്ട്പുട്ട് Vout കുറയാൻ തുടങ്ങുന്നു ഇത് രണ്ട് കാരണങ്ങളാൽ ആകാം ഒന്ന് ലോഡ് കറന്റിലെ വർദ്ധനവാണ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് Vin കുറഞ്ഞതിനാലാകാം ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗേറ്റ് വോൾട്ടേജ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക എന്നതാണ് ഇപ്പോൾ Vout കുറയുന്നു Vg ഇത് ഗേറ്റ് വോൾട്ടേജ് ആണ് ഇത് കുറയ്ക്കുന്നത് Vinനെ അടിസ്ഥാനമാക്കി ആണ് അതിനാൽ സീരീസ് പാസ് എലമെൻറ് കൺട്രോൾ എന്ന നിലയിൽ ആത്യന്തികമായി ഒരു PMOS എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർജ് പമ്പോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള Vbias ലഭിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു qപോയിൻറ് ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുക ഞാൻ അത് ഡോട്ട് ഇട്ട വരിയിൽ വരയ്ക്കും അതിനാൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത് ഇത് ഒന്നുകിൽ ഒരു ചാർജ് പമ്പ് അല്ലെങ്കിൽ n ചാനൽ മോസ്ഫെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ പി ചാനലിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നേരിട്ട് ഗേറ്റ് വോൾട്ടേജ് കുറയ്ക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ടാകും അതിനാൽ PMOS സർക്യൂട്ടിന്റെ കാര്യത്തിൽ ഇത് ഒരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരു ലളിതമായ സിസ്റ്റം നിർമ്മിക്കാൻ കഴിയും നിങ്ങൾ ഒരു LDO തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ തവണയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഞാൻ ഒരു പുതിയ ഷീറ്റ് എടുക്കട്ടെ ഞാൻ ഇത് ഇവിടെ നിന്ന് മാറ്റുകയാണ് ഞാൻ ഇവിടെക്ക് പോകുകയാണ് അതിനാൽ ഒരു LDO തിരഞ്ഞെടുക്കുമ്പോൾ ഡാറ്റാ ഷീറ്റ് നോക്കേണ്ടതുണ്ട് ഒരെണ്ണം എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ വളരെ ലളിതമായ ഒരു റിസൾട്ട് ഇവിടെ കാണിക്കാം അതിൽ നിന്ന് കഥ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം സാധാരണ ഇതാണ് ചില കാരണങ്ങളാൽ നിങ്ങൾ ഇത് 8 അല്ലെങ്കിൽ 0 85 ആമ്പുകളായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഞാൻ ഇതിനെ തിരിച്ചു കണക്ട് ചെയ്യട്ടെ ഞാൻ ലോഡ് ചെയ്യുന്നത് 0 8 ആമ്പ്സ് ആണ് നിങ്ങൾ ഡാറ്റ ഷീറ്റ് നോക്കി എല്ലായ്പ്പോഴും ഈ ലോഡ് കറന്റ് കണ്ടെത്തണം ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്താണ് ഈ ആക്സിസ് ലോഡ് കറന്റാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ 0 2 0 4 0 6 0 8 എന്നിവ നൽകാം അത് യൂണിഫോം അല്ല അതിനാൽ ഞാൻ അത് മാറ്റട്ടെ ഇത് 0 8 ഇത് 0 4 ഇത് 0 2 ഇത് 0 6 ആയിരിക്കണം ഇത് 150 മില്ലിവോൾട്ട് ആണ് ഇത് 75 മില്ലിവോൾട്ടിന്റെ പകുതിയായിരിക്കണം ഇത് 0 ആണെന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇത്തരത്തിലുള്ള ഗ്രാഫുകൾ അടങ്ങിയിട്ടുള്ള ഡാറ്റ ഷീറ്റുകൾ നോക്കുക നിങ്ങളുടെ Vout എന്താണെന്നും നിങ്ങൾ നോക്കണം Vout 2 5 വോൾട്ടായി സജ്ജമാക്കുക ഒരു പ്രത്യേക ജംഗ്ഷൻ താപനിലയിൽ ഇത് വ്യക്തമാക്കുന്നു അതിനാൽ ഈ പാരാമീറ്ററുകൾ നോക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല തന്നിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനായി നിങ്ങളുടെ LDO രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നിങ്ങൾ ഇത് നോക്കേണ്ടതുണ്ട് ഈ സുപ്രധാന പാരാമീറ്ററും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് എന്തുകൊണ്ട് പ്രധാനമാണ് ഈ റിസൾട്ട് കാരണം ഇത് പ്രധാനമാണ് ഞാൻ വീണ്ടും ഇത് വരച്ചു കാണിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ആമ്പിയറുകൾ ഇടണം ഞാൻ ഇവിടെ ഇടട്ടെ ഞാൻ വീണ്ടും ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് വരയ്ക്കാം ഇത് ഇതുപോലെ മാറുന്നു വാസ്തവത്തിൽ ഞാൻ ഇത് അൽപം അൺ ഫെയർ ആക്കണം അതിനാൽ ഇത് കുറച്ചുകൂടി ആകർഷകമാക്കും ഈ ഭാഗം 0 8 ആമ്പ്സ് ആണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇത് മൈനസ് 40 ഡിഗ്രിയാണ് ഇത് പ്ലസ് 25 ഉം ഇത് പ്ലസ് 125 ഉം ആണ് അതിനാൽ ഇപ്പോൾ ഇവ തിരികെ ഇടാം ഇത് 150 മില്ലിവോൾട്ട് ആണ് മുമ്പത്തെ ഫലത്തിൽ നിന്ന് ഇത് ഉയർന്നതായി നിങ്ങൾക്ക് കാണാം ഇതിനർത്ഥം LDOയിലുടനീളം കൂടുതൽ വൈദ്യുതി വിതരണം നടക്കുന്നു എന്നാണ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് വർദ്ധിച്ചതിനാലാണിത് ഇതിന് ഉയർന്ന വോൾട്ടേജ് ഡിഫറൻഷ്യൽ നിലനിർത്തേണ്ടതുണ്ട് ഉയർന്ന വോൾട്ടേജ് കളയേണ്ടതുണ്ട് അങ്ങനെ ഈ ലോഡ് കറന്റ് നമുക്ക് വരയ്ക്കാം LDO തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പാരാമീറ്ററാണിത് ഒരു LDO തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ നോക്കേണ്ട ഒരു പാരാമീറ്റർ ഉണ്ട് അത് ലൂപ്പ് ഗയിനുമായി ബന്ധപ്പെട്ടതാണ് ഇത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് വളരെ ലളിതമായ ഒരു ഡയഗ്രം ഇവിടെ വരയ്ക്കാം എന്നാൽ ഇത്തവണ ഞങ്ങൾ അത് സംഗ്രഹിക്കും ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല ഈ ലൂപ്പ് ഗെയിൻ വിശദീകരിക്കുന്നതിന് നമുക്ക് വളരെ ലളിതമായ ഒരു ഡയഗ്രം നോക്കാം നിങ്ങൾക്ക് എറർ ആംപ്ലിഫയർ ഉണ്ടെന്ന് ഓർമ്മിക്കുക ഇതൊരു LDO ആണ് ഇതിന് ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട് അതിന് ഒരു ഗെയിനും ഉണ്ടാകും Vi ആണ് ഫീഡ്ബാക്ക് ഇത് Vref Vout എക്സ്പ്രഷൻ ഓർക്കുക നമ്മൾ അത് നേരത്തെ കണ്ടവയാണ് അതിനാൽ ഞാൻ അത് എടുക്കുകയാണ് അത് എഴുതിയത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാം ഞങ്ങൾ ഇത് എടുക്കണമെന്ന് ഞാൻ കരുതുന്നു ഇത് Voutന് സഹായകരമാകും ഓപ്പറേഷണൽ ആംപ്ലിഫയർ ബയ്സിക്സ് നോക്കാം എറർ ആംപ്ലിഫയർ എല്ലായ്പ്പോഴും ഔട്ട്പുട്ടിനോട് മാച്ചാകാൻ ശ്രമിക്കുന്നുവെന്നും Vref ഉും Voutഉും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും വളരെ ചെറുതാണെന്നും ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുവെന്നും ഇത് കാണിക്കുന്നു ഇത് യഥാർത്ഥ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള ലളിതമായ എക്സ്പ്രഷൻ ഈ രണ്ട് റെസിസ്റ്ററുകളിൽ നിന്നുള്ള ഗെയിൻ ഫാക്ടറും ഇതിൽ കാണാം ഇത് വ്യക്തമായും ഫീഡ്ബാക്ക് ഗെയിനാണ് എന്തുകൊണ്ട് ആംപ്ലിഫയർ ഗെയിനിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് Vout സൂക്ഷ്മമായി ട്രാക്കുചെയ്യാൻ സാധ്യമാകുന്നത് ഉയർന്ന ഗെയിൻ കാരണം ആണ് അതിനാൽ ഉയർന്ന ഗെയിൻസെൻസിറ്റീവ് ആകാൻ കാരണമാകുന്നു വളരെ കൃത്യമായി മനസ്സിലാക്കാനും ട്രാക്കുചെയ്യാനും ഇതിന് കഴിയും LDO ലോസുകൾ ഉയർന്നതാണെങ്കിൽ LDO ഒരു റെഗുലേറ്റർ ആയി പ്രവർത്തിക്കുകയില്ല LDOയുടെ ഗെയിൻ വളരെ നിർണായകമാണ് LDOയുടെ റിപ്പിളുകൾ കളയാനുള്ള കഴിവുമായും ഗെയിൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഡാറ്റാ ഷീറ്റുകളിൽ നോക്കേണ്ട മറ്റൊരു പരാമീറ്റർ കൂടി ഉണ്ട് അത് പ്രധാനമായും പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ PSRR എന്ന് വിളിക്കുന്ന പരാമീറ്ററാണ് PSRR ഇങ്ങനെ കണ്ടുപിടിക്കാം PSRRറിനെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് വിശദമായി ചർച്ച ചെയ്യും എനിക്ക് ഈ PSRR കണക്ട് ചെയ്യണം ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ കാരണം ഇത് ഈ എറർ ആംപ്ലിഫയറിന്റെ ഗെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉയർന്ന ലൂപ്പ് ഗെയിൻ നിങ്ങൾക്ക് ആവശ്യമായ നിയന്ത്രണം നൽകുന്നു ഉയർന്ന സെൻസിറ്റിവിറ്റി കാരണം ഉയർന്ന ലൂപ്പ് ഗെയിൽ കിടുന്നു ഇതിന് റെഗുലേഷൻ ചെയ്യാൻ കഴിയും അതിനാൽ ഈ ലൂപ്പ് ഗെയിൽ കുറയ്ക്കുന്ന സാഹചര്യങ്ങളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് ലൂപ്പ് ഗെയിൻ കുറയ്ക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിനായി നിങ്ങൾ ഒപ് ആമ്പിൻറെ കഴിവ് അല്ലെങ്കിൽ LDOയ്ക്ക് റിപ്പിളുകൾ നിരസിക്കാനുള്ള കഴിവ് പരിശോധിക്കണം അതിനാൽ നമുക്ക് അത് പരസ്പരം കണക്ട് ചെയ്യാം ഞാൻ ഇവിടെ മറ്റൊരു ചിത്രം വരയ്ക്കാം ഇത് LDO എന്ന എറർ ആംപ്ലിഫയറിന്റെ കഴിവ് മാറ്റുന്നു അതിനാൽ ഇത് പ്രധാനമായും dBയിൽ പ്രകടിപ്പിച്ച PSRR ആണ് ഇത് മൈനസ് 70 ഇത് മൈനസ് 60 മൈനസ് 50 മൈനസ് 40 എന്നിങ്ങനെയാണ് അതിനാൽ മൈനസ് 70 ഉള്ള ഒരു LDO മൈനസ് 50 നെ അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് നിങ്ങൾക്ക് പറയാം വ്യക്തമായും ഇത് മൈനസ് 70 ആണ് ഈ LDO മികച്ച ഒന്നാണ് അതിന്റെ റസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എത്രമാത്രം പിന്തുണയ്ക്കുന്നു എന്നത് ഒരു ചിത്രം വഴി ഇവിടെ കാണിക്കാം ഇത് ഫ്രീക്വൻസിയാണ് ഇത് PSRR ആണ് ഇത് സമാനമായി മാറുന്നു LDO ഇതുപോലെയാണ് പെരുമാറുന്നത് ഇതൊരു ലോഗ് ചിത്രമാണെന്ന് ശ്രദ്ധിക്കുക ഞാൻ അത് dB യിൽ പരാമർശിച്ചു കുറച്ച് സിമ്പിൾ ആക്കാനും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയും ഞാൻ ഇത് ഇങ്ങനെയാക്കാം ഇത് താഴ്ന്ന ഫ്രീക്വൻസിയാണ് ഇത് ഉയർന്ന ഫ്രീക്വൻസിയും ഈ രണ്ട് ചിത്രങ്ങളും വ്യത്യസ്തമാണ് ഇത് കുറഞ്ഞ ലോഡിലാണ് ഇത് ഉയർന്ന ലോഡിലാണ് നിങ്ങൾക്ക് ഇതുപോലൊന്ന് വരയ്ക്കാം അതിനാൽ ഇത് ലോഗ് ആണെന്ന് ദയവായി ശ്രദ്ധിക്കുക ഞാൻ വിശദമായി പറഞ്ഞില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ലൂപ്പ് ഗെയിൻ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു എന്നതാണ് കുറഞ്ഞ ലോഡ് എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് കുറഞ്ഞ ലോഡ് എന്നതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് 10 മില്ലി ആമ്പിയർ മാത്രമാണെങ്കിലാണ് 100 മില്ലി ആമ്പിയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മികച്ച ലൂപ്പ്ഗെയിൻ ലഭിക്കും X ആക്സിസിൽ ഫ്രീക്വൻസിയാണ് റിപ്പിൾ നിരസിക്കാനുള്ള LDOയുടെ കഴിവാണ് ഇതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിപ്പിളുകളെ നിരസിക്കാനുള്ള കഴിവ് കുറഞ്ഞ ഫ്രീക്വൻസിയിലും കുറഞ്ഞ ലോഡിലും വളരെ മികച്ചതാണ് എന്നാൽ ലോഡ് കറന്റ് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LDOയുമായി പ്രശ്നമുണ്ട് ഇതിന്റെ ലൂപ്പ് റെയിൻ യഥാർത്ഥത്തിൽ കുറയുന്നു അതിന്റെ ഫലമായി ഇൻപുട്ട് റിപ്പിളുകൾ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവും മോശമാണ് ഞാൻ പറഞ്ഞതുപോലെ ലൂപ്പ് ഗെയിൻ ഒരു പ്രഹരം എടുക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിലും ഉയർന്ന ലോഡുകളിലേക്കും നീങ്ങുകയാണെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് വർദ്ധിക്കുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ LDOയ്ക്ക് പരിമിതമായ ബാൻഡ്വിഡ്ത്ത് ഉണ്ടെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ ഇത് വ്യക്തമായ സൂചകമാണ് നിങ്ങൾ 0 ലേക്ക് അടുക്കുന്നതിനാൽ PSRR കുറയുന്നുവെന്ന് കാണാം ഇത് മൈനസ് 30 മൈനസ് 20 എന്നിങ്ങനെയാണ് അതിന്റെ റസ്പോൺസ് കുറയ്ക്കുകയാണ് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് റിപ്പളും നോയ്സും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് കുറയുന്നു ഒപ്പം ലോഡ് കറന്റിലെ വർദ്ധനവുമുണ്ടാകുന്നു ഞങ്ങൾക്ക് ഇവിടെ വലിയ ബാൻഡ്വിഡ്ത്ത് ഇല്ലാത്തതിനാൽ ഉയർന്ന ലൂപ്പ് ഗെയിൻ നിലനിർത്താൻ കഴിയില്ല LDOയുടെ ബാൻഡ്വിഡ്ത്ത് പരിമിതമാണ് ഈ പ്രധാനപ്പെട്ട പാരാമീറ്റർ പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യൊ അല്ലെങ്കിൽ റിപ്പിൾ റിജക്ഷൻ അനുപാതവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് LDO പെർഫോർമെൻസ് മാട്രിക്സ് വഴി വിലയിരുത്താൻ കഴിയും നിങ്ങൾ ഡാറ്റ ഷീറ്റ് നോക്കുക നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രധാന പാരാമീറ്റർ അക്ക്വിറസിയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പ്രധാനം കാരണം ഇത് LDOയിൽ നിന്ന് LDOയിലേക്ക് വരുന്നു ഫാബ്രിക്കേഷൻ പ്രക്രിയ ഒരു വേരിയബിൾ ആണ് നിങ്ങൾക്ക് അത്രയധികം കൺട്രോൾ കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയും ഇതിന് ചില വേരിയബിളുകൾ ഉണ്ടാകും അതിനാൽ ഇത് ഫാബ്രിക്കേഷൻ പ്രക്രിയയിൽ നിന്ന് വരാം കൂടാതെ ഇത് താപനിലയിൽ നിന്നും വരാം താപനിലയിലെ മാറ്റത്തോട് പ്രതികരിക്കാനുള്ള സർക്യൂട്ടിന്റെ കഴിവിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാന പാരാമീറ്ററുകൾ ഇവയാണ് അതിനാൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് LDOയുടെ അക്ക്വിറസി മറ്റൊരു പ്രധാന കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇവയിൽ ടോളറൻസ് കാണാനും ആഗ്രഹിച്ചേക്കാം വീണ്ടും ഇത് പ്രധാനമായും ഫാബ്രിക്കേഷനിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് കാണുക നിങ്ങൾ ഈ ബെയ്സിക് എക്സ്പ്രഷനിലേക്ക് പോകുക നിങ്ങൾ ഈ ബെയ്സിക് എക്സ്പ്രഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ സ്ഥലം വ്യക്തമായി കാണാൻ കഴിയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് എന്താണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു Vref ബാൻഡ് ഗ്യാപ്പ് റഫറൻസ് വോൾട്ടേജാണ് ഇത് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞങ്ങൾ LDOയെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തിരുന്നു Vout ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് മാറുകയാണെങ്കിൽ V out നെ ഇത് ബാധിക്കുന്നു അതിനാൽ എല്ലാ നിയന്ത്രണ ലൂപ്പുകളും അർത്ഥമാക്കുന്നത് നിങ്ങൾ LDOയുടെ ടോളറൻസ് കാണണം എന്നാണ് LDOയുടെ ടോളറൻസിനെ കുറിച്ചും ഡാറ്റ ഷീറ്റിൽ നിന്നും കിട്ടും അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പാരാമീറ്ററിതാണ് ഒരു LDOയ്ക്ക് ഗെയിൽ എറർ എന്ന് വിളിക്കുന്ന ഒന്ന് ഉണ്ട് ഇത് ലളിതമായി അർത്ഥമാക്കുന്നത് സിസ്റ്റത്തിന്റെ ഏറ്റക്കുറച്ചിലുകളോടുള്ള സെൻസിറ്റിവിറ്റിയാണ് ലൂപ്പിലുടനീളമുള്ള ഗെയിൻ വളരെ പ്രധാനമാണ് ഇൻഫിനിറ്റി ലൂപ്പ് ഗെയിൻ ഉള്ള എൽഡിഒ നിലവിലില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതിനാൽ എന്താണ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഗെയിൻ ക്രമീകരിക്കുന്നു V FB നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും എറർ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് മറ്റൊരു രീതിയിൽ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു VFB യും VREFും തുല്യമായിരിക്കണം എന്നാൽ വാസ്തവത്തിൽ അത് ഏതാണ്ട് അടുത്താണ് ഇപ്പോൾ ഇതിനർത്ഥം ഇത് റെയിനിലെ എററാണ് ഒരു LDOയുടെ ഗെയിൻ അതാണ് അതിനാൽ ഇതെല്ലാം ഇപ്പോൾ സംഗ്രഹിച്ച് ഡാറ്റ ഷീറ്റ് നോക്കാം ഒരു ഡാറ്റ ഷീറ്റ് തുറന്ന് ചില പാരാമീറ്ററുകൾ നോക്കാം കൂടാതെ ലൈൻ റെഗുലേഷൻ ലോഡ് റെഗുലേഷൻ എന്നിവയിലേക്കുള്ള LDO യുടെ കഴിവ് ഞങ്ങൾക്ക് വിശദീകരിക്കാനാകുമോ എന്ന് നോക്കാം പവർ സപ്ലൈ റിജക്ഷൻ റിപ്പിളുകളുടെ റിജക്ഷൻ എന്നിവ നോക്കുക റസ്പോൺസ് നോക്കുക തുടർന്ന് ആളുകൾ എങ്ങനെയാണ് എൽഡിഒ ഉപയോഗിച്ചതെന്ന് ചില പ്രായോഗിക സർക്യൂട്ടുകൾ നോക്കുക ഇവയെല്ലാം ഒരുപക്ഷേ വളരെ പ്രധാനപ്പെട്ട ഈ സിസ്റ്റത്തിന്റെ ഘടകം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ അനുവദിക്കും ഇപ്പോൾ ഒരു ബക്ക് കൺവെർട്ടറിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് കാണാൻ കഴിയും സീരീസ് ട്രാൻസ് പാസ് ട്രാൻസിസ്റ്റർ മറ്റ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴെല്ലാം മറ്റൊരു ട്രാൻസിസ്റ്റർ ഓൺ ആവും നിങ്ങൾക്ക് ലോഡിലൂടെ സർക്കുലേറ്റ് ചെയ്തു കൊണ്ടിരിക്കും ഇൻഡക്റ്ററിൽ നിന്ന് ലോഡിലേക്കും തിരിച്ചും നിങ്ങൾക്ക് ഇവിടെയുള്ളത് സാധാരണ സജ്ജീകരണമാണ് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക് ലോഡ് ഉണ്ട് അത് ഒരു പവർ സപ്ലൈക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇടത് വശത്ത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറന്റും ഇടതുവശത്ത് നമ്മർക്ക് പവർ സപ്ലൈ കാണാം വലതുവശത്ത് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും കാണാം പവർ ലോസ് മനസിലാക്കുന്നതിനാണ് ഈ സർക്യൂട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടിസ്ഥാനപരമായി ഇൻപുട്ടിൽ വിതരണം ചെയ്യുന്ന പവർ എന്താണ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഈ പരീക്ഷണം നടത്തുകയാണെങ്കിൽ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് നിരവധി അനുബന്ധ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അതിനാൽ ഇൻപുട്ട് 6 വോൾട്ടായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും ഔട്ട്പുട്ട് 3 3 ആണെന്നും കാണാം ഇപ്പോൾ എനിക്ക് 100 മില്ലിയാംപിയർ കറന്റ് ആവശ്യമാണ് ഇപ്പോൾ ഞാൻ ഇൻപുട്ടിൽ 6 വോൾട്ട് പ്രയോഗിക്കുമ്പോൾ 3 3 വോൾട്ട് ബക്ക് ഔട്ട്പുട്ടും 200 മില്ലിയാംപിയർ കറന്റും കിട്ടുന്നതിന് 125 മില്ലിയാംപിയർ കറണ്ടാണ് എടുക്കുന്നത് വളരെ ചെറിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഔട്ട്പുട്ടിൽ ഈ ഇലക്ട്രോണിക് ലോഡ് ബക്ക് കൺവെർട്ടറിന്റെ ഔട്ട്പുട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ 50 മില്ലിയാംപിയർ മുതൽ 200 വരെ ആരംഭിക്കുന്ന ഔട്ട് ലോഡ് പ്രവാഹങ്ങളുടെ പരിധിയിലാണ് ഈ പരീക്ഷണം നടത്തിയത് ലോഡ് കറന്റ് 500 മില്ലിയാംപിയറിലാണ് എന്നതാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഈ പരീക്ഷണം 1500 മില്ലിയാംപിയർ വരെ നടത്താം അതിനാൽ ഇത് 3 3 വോൾട്ടിന്റെ ഒരു സ്നാപ്പ്ഷോട്ടാണ് ഔട്ട്പുട്ട് ലോഡ് കറന്റ് 1 5 ആമ്പിയറായി സജ്ജമാക്കിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം റീഡിങ്ങുകൾ ഉണ്ട് നിങ്ങൾ വിവിധ ലോഡ് കറന്റുകൾ സ്വൈപ്പ് ചെയ്തു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻപുട്ട് വോൾട്ടേജ് 6ൽ നിന്ന് 12 ആക്കി മുഴുവൻ പരീക്ഷണവും ആവർത്തിക്കുക എന്നതാണ് പിന്നെ നിങ്ങൾ എന്തുചെയ്യുo നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് വീണ്ടും 18 വോൾട്ടുകളായി മാറ്റി മുഴുവൻ പരീക്ഷണവും നടത്തുന്നു തുടർന്ന് നിങ്ങൾ ഇത് വീണ്ടും 24 വോൾട്ടുകളായി സജ്ജമാക്കി വീണ്ടും ചെയ്യുന്നു നിങ്ങൾ 30 വോൾട്ടിനും ഇത് ചെയ്യുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത ഇൻപുട്ട് വോൾട്ടേജുകൾക്കായി നിങ്ങൾ ലോഡ് കറന്റുകൾ വ്യത്യാസപ്പെടുത്തി പരീക്ഷണം നടത്തുന്നു ഇപ്പോൾ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടത് സ്വിച്ചിംഗ് ഫ്രീക്വാർസിയാണ് ഈ പരീക്ഷണം നടത്തുന്ന സ്വിച്ചിംഗ് ഫ്രീക്വൻസി 250 കിലോഹെർട്സ് ആണ് 500 കിലോഹെർട്സ് സ്വിച്ചിംഗ് ഫ്രീക്വൻസിക്കായി മുഴുവൻ സെറ്റും വീണ്ടും ആവർത്തിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവസാനം നിങ്ങൾക്ക് ഒരു നല്ല ടേബിൾ ലഭിക്കും അവിടെ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇപ്പോൾ 10 വോൾട്ട് ഇൻപുട്ടിനായി ഞങ്ങൾ നിങ്ങളെ കാണിക്കാം യഥാർത്ഥത്തിൽ ഇത് 12 വോൾട്ടിന്റെ ഘട്ടത്തിലായിരിക്കണം കാരണം 250 കിലോഹെർട്സിന് 18 24 30 എന്നിങ്ങനെ ആയിരിക്കണം 500 കിലോഹെർട്സിനായി 6 12 18 20 430 ഇൻപുട്ട് 50 മില്ലി ആമ്പിയറാണ് എന്നിട്ട് ഞങ്ങൾ ഒരു സ്വീപ്പ് ചെയ്തു അതിനാൽ ഇവയെല്ലാം പ്രധാനമായും 250 ഫ്രീക്വൻസിയിൽ മാറുന്നതിനുള്ള പട്ടികകളാണ് ഇത് 500 കിലോഹെർട്സ് ആണ് തുടർന്ന് ഞങ്ങൾ ഈ അളവുകളുടെ പട്ടികകളെല്ലാം സൃഷ്ടിച്ചു തുടർന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് പവർ ലോസാണ് ഇത് 250 കിലോഹെർട്സ് ആണ് ഇത് 6 മുതൽ 30 വോൾട്ട് വരെ വ്യത്യാസമുള്ളതായി നിങ്ങൾക്ക് കാണാം ചെറിയ പവർ ലോസ് സംഭവിക്കുന്നു 24 മില്ലി വാട്ട്സ് ആണ് ഇത് 50 മില്ലിയാംപിയറിന് 46 മില്ലിവാട്ട് വരെ ആകുന്നു അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കറന്റ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കാണാനും കഴിയും നിങ്ങൾക്ക് 977 മില്ലി വാട്ട് പവർ ലോസും 30 വോൾട്ടിന് 1481 മില്ലി വാട്ട് പവർ ലോസും ഉണ്ടാകുന്നു സ്വിച്ചിംഗ് ഫ്രീക്വൻസി 500 കിലോഹെർട്സ് ആയി മാറ്റുക നിങ്ങൾക്ക് 25 മില്ലി വാട്ട് മുതൽ 46 വരെയുള്ള മൂല്യങ്ങൾ ലഭിക്കും ഇത് മറ്റുമായി കോമ്പാറ്റിബിളും ഉയർന്ന കറന്റ് നൽകുകയും ചെയ്യും 500 മില്ലിയാംപിയറിനുള്ള ഈ ടേബിളിലേക്ക് നോക്കാം നിങ്ങൾക്ക് 200 കാണാൻ കഴിയും ഇത് മൂന്ന് തവണയിൽ കൂടുതലാണ് 623 ഇവിടെ ഇത് 196 ആണ് ഇത് രണ്ടര മടങ്ങാണ് ഏകദേശം രണ്ടര തവണ ഇത് ഓർമ്മിക്കുക ഇത് എങ്ങനെയെങ്കിലും എഫിഷ്യൻസിയായി കാണിക്കാം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക 250 കിലോഹെർട്സിന് 89 72 കിട്ടുന്നതായി നിങ്ങൾക്ക് കാണാം ഇതാണ് എഫിഷൻസി ഈ നിലവിലെ എഫിഷൻസി അതിശയകരമാണ് ഇൻപുട്ട് വോൾട്ടേജ് 6 വോൾട്ട് ആകുമ്പോൾ അതേ കറണ്ടിന് 89 ശതമാനം കിട്ടുന്നു അതിനാൽ ഇത് വളരെ ഉയർന്ന സംഖ്യയാണ് അടിസ്ഥാനപരമായി ഞങ്ങൾ പറയുന്നത് ഈ ടേബിളുകൾ തയ്യാറാക്കി ഈ മാട്രിക്സിൽ നമുക്ക് പരമാവധി എഫിഷൻസി ലഭിക്കുന്നുണ്ടൊയെന്നും അത് ആവശ്യമായ ലോഡ് കറണ്ടുമായും ഔട്ട്പുട്ട് പവറുമായും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും കണ്ടെത്തണം ബക്ക് കൺവെർട്ടർ നിങ്ങൾക്ക് മികച്ച എഫിഷൻസി നൽകുന്നു എനർജി ഹാർവെസ്റ്റിംഗ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ഈ എല്ലാ സിസ്റ്റങ്ങളിലേക്കും ഞാൻ ഒരു ഇൻപുട്ടാണ് നൽകുന്നത് അതിനാൽ നിങ്ങൾക്ക് ഉയർന്ന എഫിഷ്യൻസി സംവിധാനങ്ങളില്ലെങ്കിൽ ഇവ നിങ്ങൾക്ക് മികച്ച ബാറ്ററി ലൈഫ് നൽകില്ല